നമുക്ക് ഇപ്പോൾ തുടരാം അവസാന വീഡിയോയിൽ ഞാൻ നോതേറിയൻ റിംഗ്സ് എന്ന ആശയം അവതരിപ്പിച്ചു അതിനാൽ നിർവചനo പെട്ടെന്ന് നോക്കി ഞാൻ ആരംഭിക്കാം അതിനാൽ ഒരു വളയം R ന്റെ എല്ലാ ഐഡിയലുകളും കൃത്യമായി ജനറേറ്റുചെയ്യുന്നുവെങ്കിൽ വളയം R എല്ലായ്പ്പോഴും കമ്മ്യൂട്ടേറ്റീവ് റിംഗ് നോതേറിയൻ ആണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ Z Q R C ഏത് ഫീൽഡും തീർച്ചയായും ഏത് ഫീൽഡും നോതേറിയൻ ആണ് ഏതെങ്കിലും ഫീൽഡ് ഒരു വേരിയബിളിൽ മുകളിലുള്ള പോളിനോമിയൽ റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡ് K Z ന് മുകളിലുള്ള ഏതെങ്കിലും പോളി നോമിയൽ റിംഗ് ഈ അവസാന ഉദാഹരണത്തിന് അൽപ്പം ജോലി ആവശ്യമാണ് എന്നാൽ അതും ഒരു നോഥേറിയൻ റിംഗ് ആണ് കൂടാതെ ഒരു ഉദാഹരണം അനന്തമായ നിരവധി വേരിയബിളുകളിൽ ഉള്ള ഒരു പോളിനോമിയൽ റിംഗ് ആണ് അതിനാൽ ഈ വീഡിയോയിൽ നോഥേറിയൻ വളയങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി തുല്യമായ ഒരു പ്രതീകവൽക്കരണത്തോടെ ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ വളയം നോഥേറിയൻ ആണോ എന്ന് പരിശോധിക്കാനുള്ള മറ്റൊരു മാർഗം ആണിത് അതിനാൽ ഇനിപ്പറയുന്ന ആശയം നിർവചിക്കാം R ഒരു വളയം ആകട്ടെ R ലെ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല ഇതുപോലുള്ള ഐഡിയലുകളുടെ ഒരു ശേഖരമാണ് I 2 ൽ I 1 അടങ്ങിയിരിക്കുന്നു ഇത് I 3 ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് ഇതുപോലെ തുടരുന്നു അതിനാൽ ഇത് ആരോഹണത്തിലാണ് കാരണം I1 I2 ൽ അടങ്ങിയിരിക്കുന്നു I2 I3 ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ I2 വലുതാണ് I3 വലുതാണ് I4 ഇതിലും വലുതാണ് കൂടാതെ I5 I4 നെക്കാൾ വലുതാണ് അതുപോലെ തുടരുന്നു അതിനാൽ ഇത് ഒരു ആരോഹണ ശൃംഖലയാണ് ഇത് ഒരു ശൃംഖലയാണ് കാരണം അതിൽ ഓരോന്നും അടങ്ങിയിരിക്കുന്നവ അടുത്തതിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇത് കേവലം ഐഡിയലുകളുടെ ആരോഹണ ശൃംഖലയാണ് നമുക്ക് അങ്ങനെ പറയാം ഈ നിർവചനം തുടരുന്നു മുകളിലുള്ള ശൃംഖല സ്ഥിരപ്പെടുന്നുവെന്ന് നമുക്ക് പറയാം ഇവിടെ ചില പൂർണ സംഖ്യകൾ നിലവിലുണ്ടെങ്കിൽ അതായത് n ന് ശേഷം എല്ലാ ഐഡിയലുകളും തുല്യമാണ് അതായത് In In1 ന് തുല്യമാണ് അത് In2 ന് തുല്യമാണ് അങ്ങനെ ബാക്കിയുള്ളവയ്ക്കും തുല്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി n ഘട്ടത്തിന് ശേഷമുള്ള എല്ലാ ഐഡിയലുകളും തുല്യമാണ് അതിനാൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ n നെക്കാൾ വലുതായ എല്ലാ m നും Im Im പ്ലസ് 1 ന് തുല്യമാണ് അതിനാൽ n ഘട്ടത്തിനപ്പുറം എല്ലാ ഐഡിയലുകളും തുല്യമാണ് അതിനാൽ ഇത് അനന്തമായി കാണുന്ന ഒരു ശൃംഖലയാണെങ്കിലും ഇത് ഒരു പരിമിത ശൃംഖല മാത്രമാണ് അതിനാലാണ് സ്ഥിരത കൈവരിക്കുന്നുവെന്ന് പറയുന്നത് അതിനാൽ ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇത് ഉപയോഗപ്രദമാണ് കാരണം ചില സന്ദർഭങ്ങളിൽ നോഥേറിയൻ വളയങ്ങൾ പരിശോധിക്കാൻ ഇത് നമ്മളെ അനുവദിക്കും അതായത് R ലെ ഐഡിയലുകളുടെ എല്ലാ ആരോഹണ ശൃംഖലകളും സ്ഥിരത കൈവരിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു വളയം നോതേറിയൻ ആകുകയുള്ളൂ അതിനാൽ ഐഡിയലുകളുടെ ഓരോ ആരോഹണ ശൃംഖലയും സുസ്ഥിരമാക്കിയാൽ മാത്രമേ ഒരു വളയം നോതേറിയൻ ആകുകയുള്ളൂ അതിനാൽ ഇത് വേഗത്തിൽ പരിശോധിക്കാം തെളിവ് തികച്ചും നേരായതാണ് അതിനാൽ നമുക്ക് ഈ നിർദ്ദേശം ചെയ്യാം R നോതേറിയൻ ആണെന്ന് കരുതുക അതിനാൽ R നോഥേറിയൻ ആണെന്ന് നമുക്ക് അനുമാനിക്കാം നമുക്ക് ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല എടുക്കാം I1 I2 I3 ഒരു ആരോഹണ ശൃംഖലയായിരിക്കട്ടെ അതിനാൽ ഞാൻ ഇതുപോലെ എഴുതട്ടെ R ലെ ഐഡിയലുകൾ ഇത് R ലെ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖലയായിരിക്കട്ടെ ഇത് സ്ഥിരത കൈവരിക്കുന്നുവെന്ന് കാണിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അതാണ് ഈ ദിശയിലുള്ള സൂചന R നോതേറിയൻ ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല സ്ഥിരത കൈവരിക്കുന്നുവെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് I എന്നത് In ന്റെ യൂണിയൻ ആണെന്ന് നിർവചിക്കുക എന്നതാണ് അതിനാൽ ഞാൻ ചെയ്യുന്നത് ഇവയുടെയെല്ലാം യൂണിയൻ ഞാൻ എടുക്കുന്നു ഇത് ആരംഭിക്കുന്നതിനുള്ള ഒരു നിശ്ചിത സൈദ്ധാന്തിക യൂണിയൻ മാത്രമാണ് അതിനാൽ ഇത് ഒരു ഐഡിയലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിനാൽ പൊതുവേ ഐഡിയലുകളുടെ യൂണിയൻ ഒരു ഐഡിയലല്ല കാരണം പൂർണ്ണസംഖ്യകളുടെ വളയത്തിൽ 3 സൃഷ്ടിച്ച ഐഡിയൽ ഐഡിയലല്ല കാരണം 5 2 3 എന്നിവ യൂണിയനിൽ ഉണ്ട് എന്നാൽ 2 3 5 യൂണിയനിലില്ല കാരണം 5 എന്നത് 2 ലും 3 ലും ഇല്ല എന്നാൽ ഐഡിയലുകളുടെ ശൃംഖല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യൂണിയൻ ഒരു ഐഡിയലാണ് അതിനാൽ ഞാൻ ഇത് വേഗത്തിൽ തെളിയിക്കട്ടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത് ഉദാഹരണത്തിന് 0 ഉണ്ടെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് പക്ഷേ അത് ശരിയാണ് കാരണം 0 തീർച്ചയായും I n ൽ ആണ് കാരണം ഓരോ n ലും 0 ഉണ്ട് a b എന്നിവ I ലാണുള്ളത് എന്ന് നമുക്ക് പറയാം രണ്ട് ഘടകങ്ങൾ ഐഡിയലിലാണോയെന്നും അവയുടെ ആകെത്തുക ഐഡിയലിലാണോയെന്നും പരിശോധിക്കുകയാണ് 2 പ്രധാന കാര്യങ്ങൾ അതിനാൽ ആകെ തുക സെറ്റിലാണ് ab എന്നിവ i യിലെ രണ്ട് ഘടകങ്ങളായിരിക്കട്ടെ അതിനർത്ഥം ചില n m എന്നിവയ്ക്ക് a In ലാണ് b Im ലാണ് I ന്നെ യൂണിയൻ എന്ന് നിർവചിച്ചിരിക്കുന്നു നിങ്ങൾ രണ്ട് ഘടകങ്ങൾ എടുക്കുന്നു അതിനർത്ഥം എന്തെങ്കിലും യൂണിയനിലാണെങ്കിൽ അതിനർത്ഥം ഇത് ചില In കളിലാണ് അതിനാൽ ഒരു പക്ഷെ a I n ലും b I m ലും ആയിരിക്കാം പക്ഷേ അത് നമുക്കറിയാം അങ്ങനെ ഞാൻ എഴുതണം എന്ന് കരുതുക അതിനാൽ സാമാന്യത നഷ്ടപ്പെടാതെ n തീർച്ചയായും m ന് തുല്യമാണ് n എന്നത് m ന് തുല്യമായതിനേക്കാൾ കുറവായിരിക്കാം ഈ സാഹചര്യത്തിൽ വാദം സമാനമായ രീതിയിൽ പോകുന്നു അതിനാൽ I n അപ്പോൾ I m ൽ അടങ്ങിയിരിക്കുന്നു കാരണം I1 I2 ൽ അടങ്ങിയിരിക്കുന്നു അത് I3 ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ n m നേക്കാൾ കുറവാണെങ്കിൽ In Im ൽ തുടരുന്നു അതിനാൽ a In ന്റേതാണ് അത് യഥാർത്ഥത്തിൽ Im ലാണ് b യും നിർവചനം അനുസരിച്ച് തീർച്ചയായും I m അടങ്ങിയിരിക്കുന്നു അതിനാൽ ab I m ൽ ഉണ്ട് എന്നാൽ I m എന്നത് I ൽ അടങ്ങിയിരിക്കുന്നു കാരണം Im I യൂണിയൻ ആയ ഘടകങ്ങളിൽ ഒന്നാണ് അതിനാൽ ab I ലുണ്ട് ഇവിടെയാണ് ശൃംഖല പ്രധാനമാവുന്നത് ഒരു ഘടകം I n ലും ഒരു ഘടകം I m ലും ഉണ്ട് നിങ്ങൾക്ക് I ഉം Im ഉം In ഉം തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിഗമനം ചെയ്യാൻ കഴിയില്ല അതിനാൽ ab I m ൽ ഉണ്ട് അതുപോലെ ഞാൻ ഇത് നിങ്ങൾക്കായി വിടുന്നു ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേഗത്തിൽ പരിശോധിക്കാം വീഡിയോ നിർത്തി ഇത് പരിശോധിക്കാം I I ലാണെങ്കിൽ a I ലുണ്ട് r R ലാണ് ഇത് സൂചിപ്പിക്കുന്നത് ra Iലാണെന്നാണ് വാസ്തവത്തിൽ ഇത് നിസ്സാരമാണ് ഇതിന് ഒരു ചെയിൻ പ്രോപ്പർട്ടി ആവശ്യമില്ല അതിനാൽ I ഒരു ഐഡിയലാണെന്ന് ഇത് തെളിയിക്കുന്നു അതിനാൽ ഇത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ I ഒരു നോഥേറിയൻ വളയത്തിലെ ഒരു ഐഡിയലാണ് R എന്നത് നോഥേറിയൻ ആണ് അതാണ് നമ്മുടെ അനുമാനo അതിനാൽ I കൃത്യമായി സൃഷ്ടിച്ചതാണ് നോതേറിയൻ റിങ്ങിന്റെ നിർവചനം എന്താണ് ഓർക്കുക എല്ലാ ഐഡിയലുകളും കൃത്യമായി സൃഷ്ടിച്ചതാണ് അതിനാൽ I a 1 a 2 an നു തുല്യമാണെന്ന് പറയാം ഞാൻ അതിനെ ar എന്ന് വിളിക്കട്ടെ ഇവിടെ തീർച്ചയായും ഘടകങ്ങൾ a1 മുതൽ ar വരെ ഐഡിയലിലാണ് അതിനാൽ a 1 ar വഴി I സൃഷ്ടിച്ചു എന്ന് പറയാം പക്ഷേ ഇപ്പോൾ a1 ചില I യുടെയാണ് a1 എന്നത് I യുടെയാണ് എന്നതിനർത്ഥം a1 I യുടെയാണ് ചിലതിന് n 1 എന്ന് പറയാം കാരണം I I 1 I 2 I 3 മുതലായവയുടെ ഒരു യൂണിയനാണ് അതിനാൽ I ന്റെ എല്ലാ ഘടകങ്ങളും ഇവയിലൊന്നിലാണ് നമുക്ക് I n 1 എന്ന് പറയാം അതുപോലെ a2 I n2 ലാണ് അതിനാൽ പൊതുവേ a I I n I ലാണ് പക്ഷേ ഇപ്പോൾ n n 1 n 2 n r ന്റെ പരമാവധി ആക്കി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ a1 എന്നത് ഒരു I n 1 ലാണ് n 1 100 ആകാം a1 I 100 ൽ ആകാം a2 I 23 ൽ ആകാം a3 I 42 ൽ ആകാം a4 I 205 ലാകാം അതിനാൽ ഞാൻ എല്ലാ സൂചികകളിലും പരമാവധി എടുക്കുന്നു അതിനർത്ഥം a1 a2 an ഓർക്കുക ഇതിനർത്ഥം I n I I n ൽ അടങ്ങിയിരിക്കുന്നു 1 മുതൽ r വരെയുള്ള എല്ലാ I യ്ക്കും കാരണം n n 1 നെക്കാൾ വലുതാണ് n കുറഞ്ഞത് n 1 നെക്കാൾ വലുതാണ് അതിനാൽ I n 1 I n ൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ n 2 കുറഞ്ഞത് n നേക്കാൾ കുറവാണ് അതിനാൽ I n 2 I n ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ അവയിൽ ഓരോന്നും I n ൽ അടങ്ങിയിരിക്കുന്നു അതിനർത്ഥം a1 a 2 an എല്ലാം I n ൽ ഉള്ളതിനാൽ അവയെല്ലാം I n I ൽ അടങ്ങിയിരിക്കുന്നു അവ I n ൽ അടങ്ങിയിരിക്കുന്നു ഇതിനർത്ഥം an വഴി a1 സൃഷ്ടിച്ച ഐഡിയലുകൾ I n ൽ അടങ്ങിയിരിക്കുന്നു കാരണം ഒരു ഐഡിയലിൽ ഒരു കൂട്ടം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഘടകങ്ങളുടെ ഓരോ രേഖീയ സംയോജനവും നിർവചനം അനുസരിച്ച് ആ ഐഡിയലിലായിരിക്കും അതിനാൽ an വഴി a1 സൃഷ്ടിച്ച ഐഡിയലുകൾ I n ൽ അടങ്ങിയിരിക്കുന്നു എന്നാൽ ഇത് I ക്ക് തുല്യമാണ് അനുമാനപ്രകാരം I ar വഴി a1 ന് തുല്യമാണ് ഞാൻ ശരിക്കും ഇവിടെ r എഴുതണം അതിനാൽ ഇത് ഇതിന് തുല്യമാണ് എന്നാൽ I n എന്നതും I ൽ അടങ്ങിയിരിക്കുന്നു കാരണം I n അതിന്റെ യൂണിയൻ I ന്റെ ഘടകങ്ങളിലൊന്നാണ് അതിനാൽ I In ൽ അടങ്ങിയിരിക്കുന്നു In I ൽ അടങ്ങിയിരിക്കുന്നു അതിനർത്ഥം I In ന് തുല്യമാണ് വാസ്തവത്തിൽ ഞാൻ n ഇതുപോലെ നിർവചിക്കരുത് n കുറഞ്ഞത് ഈ സംഖ്യയാണെങ്കിലും ഇതിന്റെ പരമാവധിയാണെങ്കിലും ഈ വാദം അങ്ങനെ തന്നെ അതിനർത്ഥം നിങ്ങൾ ഈ ശൃംഖല I I 2 എന്നിവ നോക്കിയാൽ ഈ സംഖ്യ m എന്ന് പറയട്ടെ അതിനാൽ m എന്നത് ആ സംഖ്യയാണ് നിങ്ങൾക്ക് I m ഉണ്ട് പിന്നെ Im1 ഇത് യഥാർത്ഥ ശൃംഖലയാണ് എന്നാൽ ഇത് നമ്മൾ തെളിയിച്ച I ആണ് Im2 I ആണ് ഓരോ ഘട്ടത്തിലും നമുക്ക് I ഉണ്ട് ഇതിന്റെ അർഥം ഒരു ശൃംഖല സ്ഥിരത കൈവരിക്കുന്നതാണ് അതിനാൽ നമ്മൾ ചെയ്തത് നിങ്ങൾ ഒരു ശൃംഖല എടുക്കുകയാണ് നമ്മൾ അവയുടെ യൂണിയൻ എടുത്തു അത് നമ്മൾ വാദിച്ച ഒരു ഐഡിയലാണ് ഇത് ഒരു ഐഡിയലായിക്കഴിഞ്ഞാൽ അത് ഒരു സംഗ്രഹമാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ തെളിയിച്ചു R നോഥേറിയൻ ആണെന്ന് ഓർക്കുക ഒരിക്കൽ അത് ഒരു ഐഡിയലായിക്കഴിഞ്ഞാൽ അത് നിരവധി ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെ പ്രധാന പദം നിരവധി ഘടകങ്ങളാണ് കാരണം ഇവിടെ ധാരാളം ഘടകങ്ങൾ ഉണ്ട് അവ ഓരോന്നും I n ന്റെ ഒരു ഐഡിയലിൽ പെടുന്നു ഒടുവിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാo ഒരു പ്രത്യേക I n ൽ ഉള്ള ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരാം അതിനുശേഷം നമ്മൾക്ക് പുതിയതൊന്നും ലഭിക്കില്ല നിങ്ങൾക്ക് ഐഡിയൽ I മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെ നൽകിയ ശൃംഖല സ്ഥിരത കൈവരിച്ചു അതിനാൽ ഇത് ഒരു ദിശയുടെ തെളിവ് പൂർത്തിയാക്കുന്നു ഒരു വളയം നോഥേറിയൻ ആണെങ്കിൽ R ലെ എല്ലാ ആരോഹണ ഐഡിയൽ ശൃംഖലകളും സ്ഥിരത കൈവരിക്കാൻ പോകുന്നുവെന്ന് തെളിയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് മറ്റേ ദിശയിലേക്ക് പോകാം ഐഡിയലിന്റെ ഓരോ ആരോഹണ ശൃംഖലയും സുസ്ഥിരമാകുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഒപ്പം എല്ലാ ഐഡിയലുകളും കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ശരി ഇത് എളുപ്പമാണ് അതിനാൽ നമുക്ക് ഒരു ഐഡിയൽ എടുത്ത് I ന്റെ ഒരു ഘടകം തിരഞ്ഞെടുക്കാം അതിനാൽ x1 I ന്റെ ഏതെങ്കിലും ഘടകമായിരിക്കട്ടെ തീർച്ചയായും I ന്റെ ഘടകങ്ങളുണ്ട് I ശൂന്യമല്ലാത്ത ഒരു സെറ്റ് ആണ് ഒരു ഐഡിയൽ നിർവചനം അനുസരിച്ച് 0 ഘടകം ഉൾക്കൊള്ളാൻ പോകുന്നു അതിനാൽ അത് ശൂന്യമല്ല അതിനാൽ എനിക്ക് ഒരു ഘടകം എടുക്കാം I x1 സൃഷ്ടിച്ച x ഐഡിയൽ ആണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്തുകൊണ്ടാണത് ഒരൊറ്റ ഘടകത്തിലൂടെയാണ് I സൃഷ്ടിച്ചതെങ്കിൽ അത് തീർച്ചയായും കൃത്യമായി സൃഷ്ടിച്ചതാണ് അതിനാൽ I കൃത്യമായി ജനറേറ്റുചെയ്തതാണെന്ന് കാണിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് ഓർക്കുക നിങ്ങൾ ഒരു ഘടകo എടുക്കുന്നു ആ ഘടകത്താലാണ് I സൃഷ്ടിച്ചതെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു കാരണം ഇത് ഒരൊറ്റ ഘടകത്താൽ കൃത്യമായി സൃഷ്ടിച്ചതാണ് ഇല്ലെങ്കിൽ x 2 I x 1 ന്റെ ഒരു ഘടകമായിരിക്കട്ടെ x 1 I ൽ ഉണ്ടെന്ന് ഓർക്കുക അതിനാൽ x1 സൃഷ്ടിച്ച ഐഡിയൽ തീർച്ചയായും I ൽ അടങ്ങിയിരിക്കും അവർ തുല്യരാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇല്ലെങ്കിൽ x 1 സൃഷ്ടിച്ച ഐഡിയലിനേക്കാൾ I വളരെ വലുതാണ് അതിനാൽ x 1 ൽ ഇല്ലാത്ത I ലെ ഒരു ഘടകo എടുക്കുന്നു അതിനർത്ഥം x2 I ലാണ് പക്ഷേ x2 x1 ൽ അല്ല ഇപ്പോൾ I x 1 x 2 ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇൻഡക്ഷൻ ഘട്ടം തുടരുന്നു അല്ലെങ്കിൽ I x 1 x 2 ആണോ എന്ന് നോക്കുക നമ്മൾ ചെയ്തു കഴിഞ്ഞു കാരണം I രണ്ട് ഘടകങ്ങളാൽ ജനറേറ്റുചെയ്തതാണ് അതിനാൽ I കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടു അതാണ് നമ്മളുടെ ലക്ഷ്യo അല്ലെങ്കിൽ I മൈനസ് x1 x 2 ന്റെ ഉള്ളിൽ x 3 തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ഘട്ടത്തിൽ x 1 x 2 സൃഷ്ടിച്ച ഐഡിയൽ I ൽ അടങ്ങിയിരിക്കുന്നു കാരണം x 1 x 2 I ന്റെ ഘടകങ്ങളാണ് അതിനാൽ x 1 x 2 സൃഷ്ടിച്ച ഐഡിയൽ I ൽ അടങ്ങിയിരിക്കുന്നു ഇത് I ക്ക് തുല്യമാണെങ്കിൽ നമ്മൾ പ്രക്രിയ അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ x 1 x 2 സൃഷ്ടിച്ച ഐഡിയലിനേക്കാൾ I വളരെ വലുതാണ് അതിനാൽ നമുക്ക് x1 x2 ൽ ഇല്ലാത്ത ഒരു ഘടകം തിരഞ്ഞെടുക്കാൻ കഴിയും നമ്മൾ ഇത് ചെയ്യുന്നത് തുടരുകയാണ് അതിനാൽ ഞാൻ x 1 സൃഷ്ടിച്ച ഐഡിയലുമായി I 1 നെ നിർവചിക്കാൻ പോകുന്നു x 1 x 2 സൃഷ്ടിച്ച ഐഡിയലുമായി I 2 നെ നിർവചിക്കാൻ പോകുന്നു അതിനാൽ ഓർക്കുക തീർച്ചയായും I1 I2 ൽ അടങ്ങിയിരിക്കുന്നു കാരണം I 1 എന്നത് x 1 സൃഷ്ടിച്ചതാണ് I2 x 1 x 2 എന്നിവയാൽ സൃഷ്ടിച്ചതാണ് അതിനാൽ I 1 ലെ ഓരോ ഘടകവും x 1 ന്റെ ഗുണിതമാണ് അത് ഇതിനകം I2 ൽ ഉള്ളതിനാൽ ഇപ്പോൾ ഇത് തുടരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാo അതിനാൽ നമ്മൾ I 1 I 2 I r അല്ലെങ്കിൽ I n വരെ നിർമ്മിച്ചുവെന്ന് പറയട്ടെ നമ്മൾ എങ്ങനെ I n നിർമ്മിക്കും അത് xn വഴി x1 നാൽ ജനറേറ്റുചെയ്യുന്നു ഒപ്പം In I ക്ക് തുല്യമാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു കാരണം n ഘടകങ്ങളാൽ ഇത് വീണ്ടും കൃത്യമായി ജനറേറ്റുചെയ്യുന്നു ഇല്ലെങ്കിൽ I In നുള്ളിൽ xn1 തിരഞ്ഞെടുക്കുക ഓർമിക്കുക ഇവയിൽ ഓരോന്നും I ൽ അടങ്ങിയിരിക്കുന്നു നമ്മൾ നിർമ്മിക്കുന്ന ഓരോ ഐഡിയലുo I ന്റെ ഒരു ഉപ ഐഡിയലാണ് അത് I ക്ക് തുല്യമാണെങ്കിൽ നമ്മൾ പൂർത്തിയാക്കി ഇല്ലെങ്കിൽ I ലുള്ള ഒരു ഘടകം നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ I n പ്ലസ് 1 ൽ അല്ല ഇപ്പോൾ Inxn പ്ലസ് 1 തിരഞ്ഞെടുത്തുവെന്ന് നിർവചിക്കാം നമ്മൾ നിർവചിക്കുകയും ഞാൻ n n പ്ലസ് 1 xn കോമയിലൂടെ x 1 ആയി സജ്ജമാക്കുകയും ചെയ്യുന്നു xn plus 1 അതിനാൽ നമുക്ക് ഈ പ്രക്രിയ തുടരാം അങ്ങനെ നമ്മൾ ഈ രീതിയിൽ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ഉള്ളത് I 1 ൽ അടങ്ങിയിരിക്കുന്ന I 2 ആണ് അത് I 3 ൽ അടങ്ങിയിരിക്കുന്നു അത് I n ലും അത് In1 ലും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഈ അനുമാനം ഉപയോഗിക്കുകയാണെങ്കിൽ പരികല്പന പ്രകാരം ഈ ശൃംഖല നിലനിൽക്കുന്നു അതാണ് പരികല്പന അതിനാൽ In In1 ന് തുല്യമാണ് ചില n ന് അത് In2 ന് തുല്യമാണ് അതിനാൽ ഈ ശൃംഖലയിൽ ചില ഘട്ടങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് പുതിയ ഐഡിയലുകൾ ലഭിക്കുന്നില്ല ഓരോ തവണയും നിങ്ങൾക്ക് ഒരേ ഐഡിയൽ ലഭിക്കുന്നു പക്ഷേ അതിനർത്ഥം ഈ സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കുന്ന ഓരോ ഐഡിയലുo കൃത്യമായി ജനറേറ്റുചെയ്ത ഒരു ഐഡിയൽ ആണെന്ന് ഓർക്കുക അതിനാൽ In തുല്യമായിരിക്കണം എന്തുകൊണ്ട് ഇത് തുല്യമായിരിക്കണം ഞാൻ ഇത് വാക്കുകളിൽ പറയാം I തുല്യമായിരിക്കണം കാരണം ഇത് In ന് തുല്യമല്ലെങ്കിൽ I ന്റെ ചില ഘടകങ്ങൾ In ൽ ഇല്ല കൂടാതെ I n പ്ലസ് 1 നിർവചിക്കാൻ നമ്മൾ അത് ഉപയോഗിക്കുന്നു അതിനാൽ In പ്ലസ് 1 വാസ്തവത്തിൽ n നെക്കാൾ കർശനമായി വലുതായിരിക്കും ഇത് In ന് തുല്യമാകില്ല ഇത് ഈ അനുമാനത്തിന് വിരുദ്ധമാണ് അതിനാൽ അത് തെളിവ് പൂർത്തിയാക്കുന്നു അതിനാൽ ചില പരിമിതമായ ഘട്ടത്തിൽ I In ന് തുല്യമായിരിക്കണം അതിനർത്ഥം I കൃത്യമായി ജനറേറ്റുചെയ്താണെന്നാണ് അതിനാൽ ഐഡിയലുകളുടെ ഒരു ആരോഹണ ശൃംഖല നിലവിലുണ്ടെങ്കിൽ മാത്രം ഒരു വളയം നോതെറിയൻ ആണ് ഇത് ഉപയോഗപ്രദമാണ് അതിനാൽ ഇതിന്റെ രണ്ട് ആപ്ലിക്കേഷനുകൾ ഞാൻ ഇപ്പോൾ നൽകും നിങ്ങൾക്ക് നോതെറിയൻ വളയങ്ങളുടെ ഈ ആൾട്ടർനേറ്റ് സ്വഭാവ സവിശേഷത ഉപയോഗിച്ച് ഒരു ഉദാഹരണത്തെക്കുറിച്ച് രണ്ട് പ്രസ്താവനകളും നോതെറിയൻ വളയങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയും ഉണ്ട് അതിനാൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഉദാഹരണം ഇനിപ്പറയുന്നവയാണ് അതിനാൽ കണ്ടിന്യൂസ് ഫംഗ്ഷനുകളുടെ വളയം ആയി R നിർവചിക്കാം അതിനാൽ ഞാൻ ഇത് എഴുതട്ടെ റിയൽ നമ്പറുകളിൽ നിന്ന് റിയൽ നമ്പറുകളിലേക്കുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനുകളും കോഴ്സിലെ മുമ്പത്തെ വീഡിയോകളിലൊന്നിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ഇത് വളയങ്ങളുടെ ഉദാഹരണമായി നൽകി കാരണം നിങ്ങൾക്ക് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ ചേർക്കാൻ കഴിയും കാരണം ടാർഗെറ്റ് R നമുക്ക് x ന്റെ f g പ്ലസ് fxgx ആയി ചേർക്കാം അതുപോലെ നമുക്ക് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ ഗുണിക്കാം അത് ഒരു റിംഗ് ആയി മാറുന്നു R നോതേറിയൻ അല്ലെന്നു നമ്മൾ അവകാശപ്പെടുന്നു അതിനാൽ നോതേറിയൻ അല്ലാത്ത മറ്റൊരു ഉദാഹരണമാണിത് അവസാന വീഡിയോയിൽ നമ്മൾ അനന്തമായി അനേകം വേരിയബിളുകളിൽ ഉള്ള പോളിനോമിയൽ റിംഗിനെ നോക്കി അത് ഒരു ഉദാഹരണമാണ് ഇത് മറ്റൊരു ഉദാഹരണമാണ് അതിനാൽ ഇത് എന്തുകൊണ്ട് ശരിയാണ് അതിനാൽ നോതേരിയൻ അല്ലെന്ന് തെളിയിക്കാൻ ഒന്നുകിൽ അനന്തമായി ജനറേറ്റുചെയ്ത ഒരു ഐഡിയൽ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ കൃത്യമായി സൃഷ്ടിക്കപ്പെടാത്ത ഒരു ഐഡിയൽ നമ്മൾ നിർമ്മിക്കണം അല്ലെങ്കിൽ സ്ഥിരത കൈവരിക്കാത്ത ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല നിർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ അത് ചെയ്യാൻ പോകുന്നു അതിനാൽ സ്ഥിരത കൈവരിക്കാത്ത ഒരു ആരോഹണ ശൃംഖല നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു R മുതൽ R വരെയുള്ള എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനുകളും In ആയി നിർവ്വചിക്കാം അതായത് എല്ലാ x നും കുറഞ്ഞത് n ന് fx 0 ആണ് അതിനാൽ ഇവ n പോയിന്റിനപ്പുറം അപ്രത്യക്ഷമാകുന്ന തുടർച്ചയായ കണ്ടിന്യൂസ് ഫംഗ്ഷനുകളാണ് അതിനാൽ In ആണെന്ന് പരിശോധിക്കുന്നത് എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് അതിനാൽ എല്ലാ പോസിറ്റീവ് സംഖ്യകൾക്കും ഞാൻ ഇത് നിർവചിക്കുന്നു എല്ലാ n നും ഐഡിയൽ ഒന്നാണോയെന്ന് പരിശോധിക്കുക കാരണം ഈ പ്രോപ്പർട്ടി ഉള്ള രണ്ട് ഫംഗ്ഷനുകൾ നിങ്ങൾ ചേർത്താൽ അതിനർത്ഥം അവയുടെ സമാനത n ന്റെ വലതുവശത്ത് 0 ആണ് അവയുടെ തുകയ്ക്കും ഈ പ്രോപ്പർട്ടി ഉണ്ട് n ന്റെ വലതുവശത്ത് 0 എന്നതിന് സമാനമായ ഒരു ഫംഗ്ഷൻ നിങ്ങൾ എടുക്കുകയും ഏതെങ്കിലും ഘടകം കൊണ്ട് ഗുണിക്കുകയും ചെയ്താൽ അത് n ന്റെ വലതുവശത്ത് 0 ആയി തുടരും അതിനാൽ ഇത് ഒരു ഐഡിയലാണോയെന്ന് പരിശോധിക്കുന്നത് എളുപ്പമാണ് കൂടാതെ നിങ്ങൾക്ക് ഇത് പോലെ ഒരു ആരോഹണ ശൃംഖലയുണ്ടോയെന്ന് പരിശോധിക്കാനും എളുപ്പമാണ് കാരണം 1 ന്റെ വലതുവശത്തുള്ള 0 ഫംഗ്ഷനുകൾ I 1 ൽ ഉൾക്കൊള്ളുന്നു 2 ന്റെ വലതുവശത്തുള്ള 0 ഫംഗ്ഷനുകൾ I 2 ൽ ഉൾക്കൊള്ളുന്നു അതിനാൽ 1 ന്റെ വലതുവശത്ത് 0 ആണെങ്കിൽ അത് 2 ന്റെ വലതുവശത്തും 0 ആണ് അതിനാൽ പെട്ടെന്ന് നമുക്ക് ഈ മാറ്റം സംഭവിക്കുന്നു അതിനാൽ നമ്മൾക്ക് ഒരു ആരോഹണ ശൃംഖലയുണ്ട് അതിനാൽ ഇത് സ്ഥിരത കൈവരിക്കുന്നില്ലെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ശൃംഖല സ്ഥിരത കൈവരിക്കുന്നില്ല ഇത് സ്ഥിരത കൈവരിക്കുന്നില്ലെങ്കിൽ R ന് നോതേറിയൻ ആകാൻ കഴിയില്ല കാരണം R നോതേറിയൻ ആണെങ്കിൽ ഐഡിയലുകളുടെ ഓരോ ആരോഹണ ശൃംഖലയും സ്ഥിരത കൈവരിക്കണം എന്തുകൊണ്ടാണ് ഇത് സ്ഥിരത കൈവരിക്കാത്തത് ഓരോ ഘട്ടത്തിലും നമുക്ക് കർശനമായി വലിയ ഐഡിയൽ ലഭിക്കുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിനാൽ ഒരു ഫംഗ്ഷൻ നിർവചിക്കുക ഞാൻ ആദ്യം ഒരു ചിത്രം വരയ്ക്കാൻ പോകുന്നു അതിനാൽ f 1 ഇനിപ്പറയുന്ന രീതിയിൽ f n പോലെ നിർവചിക്കുക അതിനാൽ n വരെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഫംഗ്ഷനും നമ്മൾക്ക് എടുക്കാം ഇത് ആ f ന്റെ ഒരു ഗ്രാഫ് ആണ് അതിനാൽ ഞാൻ ആദ്യം ഗ്രാഫ് വരയ്ക്കുന്നു കാരണം ഇത് കാണാൻ എളുപ്പമാണ് അതിനാൽ പൂജ്യം അല്ലാത്തതും n ന്റെ വലതുവശത്തുള്ളതുമായ n വരെ ഇത് 0 ആണ് ഉദാഹരണത്തിന് ഇത് ഒരു ഉദാഹരണo മാത്രമാണ് അതിനാൽ x നെ fx ആയും അതിനെ fnx ആയും നിർവചിക്കാo x n എന്ന് നമുക്ക് പറയാം ഇവിടെ x എന്നത് n ന് തുല്യമായതിനേക്കാൾ കുറവാണ് x എന്നത് n ന് തുല്യമായതിനേക്കാൾ വലുതാകുമ്പോൾ 0 ആണ് അതാണ് ഈ ഫംഗ്ഷൻ അതിനാൽ ഈ ഫംഗ്ഷൻ തുടർന്ന് fn തീർച്ചയായും കണ്ടിന്യൂസ് ആണ് അത് In ലാണ് കാരണം അത് n ന്റെ വലതുവശത്ത് 0 ആണ് എന്നാൽ ഓർക്കുക fn In 1 ൽ അല്ല കാരണം നിങ്ങൾ n മൈനസ് 1 എടുത്താൽ അത് x ആക്സിസിൽ 0 അല്ല അത് n മൈനസ് 1 നും n നും ഇടയിൽ 0 അല്ല അതിനർത്ഥം I n എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് പക്ഷേ I n മൈനസ് 1 ൽ അല്ല അതിനാൽ In മൈനസ് 1 എല്ലാ n നും I n ന് തുല്യമല്ല ഓരോ സംഖ്യയ്ക്കും ഈ ഫംഗ്ഷൻ നമുക്ക് നിർവചിക്കാം കുറഞ്ഞത് ഒന്നിനെങ്കിലും അതിനാൽ I n മൈനസ് 1 I n ന് തുല്യമല്ല I n മൈനസ് 1 കർശനമായി I n ൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്ഥിരതയില്ലാത്ത ഐഡിയലുകളുടെ ആരോഹണ ശൃംഖലയുണ്ട് അതിനാൽ മുമ്പത്തെ പ്രവർത്തനത്തിലൂടെ മുമ്പത്തെ നിർദ്ദേശപ്രകാരം R നോതേറിയൻ അല്ല അതിനാൽ ചില അർത്ഥത്തിൽ ഈ ഉദാഹരണവും മുമ്പത്തെ ഉദാഹരണവും നോതേറിയൻ അല്ല കാരണം അവ ചില അർത്ഥത്തിൽ വളരെ വലുതാണ് അവ വളരെ വലുതാണ് ആദ്യത്തേതിൽ വളരെ വലുതായിട്ടുള്ള ഐഡിയലുകൾ ഉണ്ട് ഒപ്പം സ്ഥിരത കൈവരിക്കാത്ത ഐഡിയലുകളുടെ ആരോഹണ ശൃംഖലയുമുണ്ട് എന്നാൽ ഇപ്പോൾ രസകരമായി ഇനിപ്പറയുന്നവയുണ്ട് ഞാൻ ഇത് ഒരു പരാമർശമായി എഴുതരുത് ഒരു ഉദാഹരണമായി ഇത് എഴുതരുത് പക്ഷേ ഒരു നോതെറിയൻ വളയത്തിന്റെ ഒരു ഉപവിഭാഗം നോതെറിയൻ അല്ലാത്തതായിരിക്കാം ഞാൻ പറയുന്നത് പൊതുവേ ഒരു നോതേറിയന്റെ ഉപവിഭാഗം നോതെറിയൻ ആയിരിക്കേണ്ടതില്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കിയ അനന്തമായ നിരവധി വേരിയബിളുകളിലെ പോളിനോമിയൽ റിംഗ് ഓർക്കുക മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു അത് അങ്ങനെയല്ല അത് നോതെറിയൻ അല്ല കാരണം അതിന് കൃത്യമായി സൃഷ്ടിക്കപ്പെടാത്ത ഒരു ഐഡിയലുണ്ട് പക്ഷെ നിങ്ങൾ പോളിനോമിയൽ നോക്കിയാൽ ഇത് തീർച്ചയായും ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് പോളിനോമിയൽ റിംഗ് R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അതിനാൽ R ന്റെ ഭിന്നസംഖ്യകളുടെ ഫീൽഡ് നമുക്ക് നോക്കാം തീർച്ചയായും ഇത് ഒരു നോതെറിയൻ റിംഗ് ആണ് കാരണം ഇത് ഒരു ഫീൽഡ് ആണ് ഏതൊരു ഫീൽഡിനും രണ്ട് ഐഡിയലുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് നോതെറിയൻ ആണ് അതിനാൽ രണ്ടും കൃത്യമായി ജനറേറ്റുചെയ്യുന്നു അതിനാൽ ഏതെങ്കിലും ഫീൽഡ് നോതെറിയൻ ആണെങ്കിലും എന്നിരുന്നാലും ഇതിന്റെ ഉപവിഭാഗമായ ഈ വളയം നോതെറിയൻ അല്ല അതിനാൽ നോഥേറിയൻ അല്ലാത്ത വളയം വിചിത്രമല്ല അതിനാൽ നിങ്ങൾക്ക് ഒരു നോഥേറിയൻ വളയം ഒരു നോഥേറിയൻ അല്ലാത്ത വളയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും അതിനാൽ ഈ ഉദാഹരണം കാണിക്കുന്നതുപോലെ ഇത് സംഭവിക്കാം എന്നിരുന്നാലും നമുക്ക് നല്ലൊരു ഫലം ഉണ്ട് നമുക്ക് അത് പറയാൻ കഴിയും R നോതേറിയൻ ആകട്ടെ I R ന്റെ ഒരു ഐഡിയലാകട്ടെ അപ്പോൾ ഘടക റിംഗ് നോതെറിയൻ ആണ് അതിനാൽ ഞാൻ പൂർണ്ണമായ തെളിവ് നൽകാൻ പോകുന്നില്ല ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു നല്ല പ്രവർത്തനമാണ് ഇത് അങ്ങനെ ഉപയോഗിക്കുന്നു ф R മുതൽ R മോഡ് I വരെയുള്ള സ്വാഭാവിക ഭൂപടമായിരിക്കട്ടെ സ്വാഭാവിക മാപ്പ് എന്താണ് ഓർക്കുക ഇത് r എന്ന ഘടകത്തെ r പ്ലസ് I ലേക്ക് അയയ്ക്കുന്നു r ന് സമാനമായ കോ സെറ്റിനെ അതിനാൽ ഇതൊരു സ്വാഭാവിക റിംഗ് ഹോമോമോർഫിസമാണ് അതിനാൽ ഇതൊരു ഓൺടു റിംഗ് ഹോമോമോർഫിസമാണ് കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഉപയോഗിക്കുക അത്രയേയുള്ളൂ കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് R മോഡ് I ലെ ഓരോ ആരോഹണ ശൃംഖലകളും സ്ഥിരത കൈവരിക്കുന്നുവെന്ന് കാണിക്കുക ഓർക്കുക ഒരു വളയം നോതേറിയൻ ആണ് ഓരോ ആരോഹണ ശൃംഖലയും ആ വളയത്തിൽ സ്ഥിരത കൈവരിക്കുകയാണെങ്കിൽ മാത്രം അതിനാൽ R മോഡ് I നോതേറിയൻ ആണെന്ന് കാണിക്കാൻ R മോഡ് I ലെ ഐഡിയലുകളുടെ ആരോഹണ ശൃംഖല സ്ഥിരത കൈവരിക്കുന്നുവെന്ന് കാണിച്ചാൽ മതിയാകും അതിനാൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് ഇത് കാണിക്കും അത് R മോഡ് I ൽ ഒരു ശൃംഖല എടുക്കുക അടിസ്ഥാനപരമായി വിപരീത ഇമേജ് എടുക്കുക ആ ശൃംഖലയിലെ ഓരോ ഐഡിയലിന്റെയും വിപരീത ഇമേജുകൾ എടുക്കുക ഇപ്പോൾ അത് R ലെ ഐഡിയലുകളുടെ ഒരു ശൃംഖല നൽകുന്നു അതിനാൽ കാരണം കറസ്പോണ്ടൻസ് സിദ്ധാന്തം പറയുന്നത് R മോഡ് I ന്റെ ഐഡിയലുകളും I അടങ്ങിയിരിക്കുന്ന R ന്റെ ഐഡിയലുകളും തമ്മിലുള്ള ബൈജെക്ഷൻ ഉൾപ്പെടുത്തൽ സംരക്ഷിക്കുന്ന ബൈജെക്ഷനാണ് അതിനാൽ നിങ്ങൾക്ക് J2 അടങ്ങിയിരിക്കുന്ന J1 ഉണ്ടെങ്കിൽ അതിൽ Jn ഉം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് R മോഡ് 1 ലെ ശൃംഖലയാണ് ഫൈ ഇൻവേർസ് J1 ഫൈ ഇൻവേർസ് J2 ൽ അടങ്ങിയിരിക്കുന്നു അത് ഫൈ ഇൻവേർസ് J3 യിലും അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അത് R ലെ ആരോഹണ ശൃംഖലയാണ് പക്ഷേ R നോതേറിയൻ ആണ് അതിനാൽ അത് സ്ഥിരപ്പെടുന്നു അതിനർത്ഥം ഫൈ വിപരീതo J n ഫൈ വിപരീതo Jn പ്ലസ് 1 ന് തുല്യമാണ് എന്നാൽ ഇതിനർത്ഥം ഇപ്പോൾ വീണ്ടും കറസ്പോണ്ടൻസ് സിദ്ധാന്തം ഉപയോഗിച്ച് J n ഐഡിയൽ J n പ്ലസ് 1 ഐഡിയലിന് തുല്യമായിരിക്കണം കാരണം അവ വ്യത്യസ്തമാണെങ്കിൽ ഫൈ വിപരീതവും വ്യത്യസ്തമായിരിക്കുo അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു സൂചനയാണ് പക്ഷേ ഒരു പ്രവർത്തനമെന്ന നിലയിൽ തെളിവ് പൂർത്തിയാക്കുക ഈ കോഴ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച നിരവധി വസ്തുതകൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ലൊരു വ്യായാമമാണ് കറസ്പോണ്ടൻസ് സിദ്ധാന്തം നോഥേറിയൻ വളയങ്ങളുടെ തുല്യ നിർവചനം തുടങ്ങിയവ അതിനാൽ ഈ നിർദ്ദേശം മികച്ചതാണ് കാരണം നിങ്ങൾക്ക് ഒരു നോതേറിയൻ വളയം ഉണ്ടെങ്കിൽ പുതിയ നോതേറിയൻ വളയങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു മാർഗ്ഗം ഇത് നൽകുന്നു R ഒരു നോതേറിയൻ റിംഗ് ആണെങ്കിൽ ഘടകം എടുത്ത് നമുക്ക് ഒരു പുതിയ നോതേറിയൻ റിംഗ് നിർമ്മിക്കാൻ കഴിയും നോതെറിയൻ വളയങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു നമുക്കെന്തറിയാം ഇതുവരെ Z നോതേറിയനിലാണെന്നും ഏത് ഫീൽഡും നോതെറിയൻ ആണെന്നും ഒരു ഫീൽഡിന് മുകളിലുള്ള പോളിനോമിയൽ റിംഗ് നോതേറിയൻ ആണെന്നും നമുക്കറിയാം എന്നാൽ പുതിയ നോതേറിയൻ വളയങ്ങൾ നിർമ്മിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഹിൽബർട്ട് അടിസ്ഥാന സിദ്ധാന്തം എന്നു വിളിക്കുന്ന സിദ്ധാന്തമാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ തെളിയിക്കുo അതിനാൽ അടുത്തതായി വരാനിരിക്കുന്നതിന്റെ പ്രിവ്യൂ ആയി ഇത് പ്രസ്താവിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിനാൽ R നോതേറിയൻ ആണെങ്കിൽ R ന് മുകളിലെ ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗും നോതെറിയൻ ആണെന്ന് ഇത് പറയുന്നു അതിനാൽ നിർവചനം ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരിട്ട് ഇത് ചെയ്യാൻ കഴിയുമെങ്കിലും Zx നോതേറിയൻ ആണെന്ന് നമ്മൾ തെളിയിക്കും പക്ഷേ ഇപ്പോൾ ഇത് ഒരു ഫീൽഡിനോട് ചേർന്നുള്ള ഒരു ഫീൽഡിന്റെ കാര്യവും ഉൾക്കൊള്ളുന്നു K ഒരു ഫീൽഡാണ് അപ്പോൾ ഒരു വേരിയബിളിലെ K ന് മുകളിലെ K പോളിനോമിയൽ റിംഗ് നോതേറിയൻ ആണ് അത് പഴയ ഉദാഹരണമാണ് അത് പുതിയതല്ല പക്ഷേ ഹിൽബർട്ട് അടിസ്ഥാന സിദ്ധാന്തം നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുന്നു ഇത് ഇപ്പോൾ നമുക്ക് ZX 1 X n അല്ലെങ്കിൽ RX 1 X n നോതേറിയൻ ആണെന്ന് പറയാം തീർച്ചയായും നമുക്ക് അനന്തമായ അനേകം വേരിയബിളുകൾ ഇടാൻ കഴിയില്ല അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇത് നോതേറിയൻ ആയിരിക്കില്ല പക്ഷേ ധാരാളം വേരിയബിളുകൾ ഉണ്ടെങ്കിൽ അത് നോതേറിയൻ ആണ് ഇതിനായി നമുക്ക് ഹിൽബെർട്ട് അടിസ്ഥാന സിദ്ധാന്തം ആവശ്യമാണ് ഇത് എങ്ങനെ ലഭിക്കും കാരണം ഇത് n വേരിയബിളിലെ പോളിനോമിയൽ റിംഗ് n മൈനസ് 1 വേരിയബിളിലെ പോളിനോമിയൽ റിംഗിന് മുകളിലുള്ള ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗാണ് അതിനാൽ ഞാൻ ഇത് പിന്നീട് കൂടുതൽ വിശദമായി ചെയ്യാo അതിനാൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു വേരിയബിളിലെ നോഥീരിയൻസ് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടരാം കൂടാതെ പരിമിതമായ നിരവധി വേരിയബിളുകളിലും നിങ്ങൾ നോതേരിയൻസ് സംരക്ഷിക്കും അതിനാൽ ഞാൻ ഇവിടെ വീഡിയോ നിർത്തട്ടെ ഈ വീഡിയോയിൽ നോതെറിയൻ വളയങ്ങളുടെ വിവിധ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് നോഥേറിയൻ വളയങ്ങളുടെ ഇതര സ്വഭാവസവിശേഷതകൾ നമ്മൾ പരിശോധിച്ചു ഐഡിയലുകളുടെ ആരോഹണ ശൃംഖലകൾ ഉപയോഗിച്ച് ഒരു വളയം നോതെറിയൻ ആണെങ്കിൽ ഏതെങ്കിലും കോഷ്യന്റ് റിംഗ് R മോഡ് I യും നോതേറിയൻ ആണെന്ന് നമ്മൾ കണ്ടു അടുത്ത വീഡിയോയിൽ നമ്മൾ ഹിൽബർട്ട് അടിസ്ഥാന സിദ്ധാന്തം തെളിയിക്കാൻ പോകുന്നു